ഡൈനാമിക് പ്രോഗ്രാമിംഗ് എങ്ങിനെ ചെയ്യാം എന്ന് കാണിക്കുന്നതിനുള്ള അവസാന ഉദാഹരണമാണിത് മെട്രിക്സ് ഗുണനത്തിന്റെ പ്രോബ്ലം നമ്മൾ നോക്കുന്നു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയുന്നത് എങ്ങിനെ എന്ന് ഓർക്കുക അനുയോജ്യമായ എൻട്രികൾ രണ്ടു മെട്രിക്സ് എടുക്കുക നിങ്ങൾക്ക് ഗുണിക്കുമ്പോൾ ലഭിക്കുന്ന പുതിയ മെട്രിക്സിലെ ഈ ഓരോ എൻട്രിയും ലഭിക്കാൻ ഈ മെട്രിക്സിലെ ഈ റോ ഈ മെട്രിക്സിലെ അതേ ലെങ്ത് ഉള്ള ഈ കോളവുമായി ഗുണിച്ച് അത് ആഡ് ചെയ്ത് എഴുതുക നമുക്ക് m ബൈ n ഓർഡർ ആയ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇതിന് n ബൈ p ഓർഡർ ഉണ്ടായിരിക്കണം നമുക്ക് കിട്ടുന്ന അന്തിമ ഉത്തരം m ബൈ p ഓർഡർ ആണ് അവസാന എൻട്രിയിൽ അന്തിമ പ്രോഡക്ട് മെട്രിക്സിൽ നമ്മൾ mp എൻട്രികൾ നടത്തണം ഈ ഓരോ എൻട്രികളും ഈ n എൻട്രികളുടെ ആകെത്തുക കണക്കുകൂട്ടാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ നമുക്ക് ഓർഡർ n സമയം എടുക്കും സാധാരണയായി മൊത്തം എടുക്കുന്ന സമയം നമുക്കു കണക്കാക്കാൻ m ടൈംസ് n ടൈംസ് p ചെയ്യാം ABij ഈ നീണ്ട സം ആണ് ഈ തുക 1 2 3 എന്നിങ്ങനെ n എൻട്രികൾ ഉണ്ട് രണ്ട് മെട്രിക്സുകളുടെ ഗുണനത്തിനു വേണ്ടി കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ വളരെ നേരിട്ടുള്ള അൽഗോരിതം ഉണ്ട് ഒരു പ്രോഡക്ട് ചെയ്യാൻ ട്രിപ്പിൾ നെസ്റ്റഡ് ലൂപ്പ് ഉണ്ട് അതിന്റെ ഓർഡർ m ടൈംസ് n ടൈംസ് p ആണ് എല്ലാ ഓർഡറും ഒന്നുതന്നെ ആണെങ്കിൽ ഇത് n ക്യൂബ്ഡ് അൽഗൊരിതം ആണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് കൂടുതൽ ബുദ്ധിപരമായ വഴികളുണ്ട് പക്ഷേ അത് ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശ്യമല്ല മറിച്ച് രണ്ട് മെട്രിക്സുകളെ ഗുണിക്കുന്നതിനുള്ള നേരായ മാർഗം m ടൈംസ് n ടൈംസ് p ആണ് അത്തരം ഗുണനങ്ങളുടെ ഒരു ശ്രേണി ഉണ്ടാകുന്നതാണ് നമ്മുടെ താൽപ്പര്യം ഇപ്പോൾ നമ്മൾ മൂന്നു മെട്രിക്സ് ഗുണിക്കാൻ എ ടൈംസ് ബി ടൈംസ് സി ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആദ്യം AB ഗുണിച്ച് ശേഷം സി കൊണ്ട് ഗുണിച്ചാലും അദ്യം BC ചെയ്തു പിന്നീട് എ കൊണ്ട് ഗുണിച്ചാലും പ്രശ്നമില്ല ഇത് അസ്സോസിയേറ്റിവ് ആണ് നമ്മൾ ഗുണനം എങ്ങിനെ ഗ്രൂപ്പ് ചെയ്യുന്നു എന്നത് അനുസരിച്ച് ചെയ്യാം സാധാരണ നമ്പറുകൾ ചെയ്യുന്ന പോലെ നമ്മൾ 6 ടൈംസ് 3 ടൈംസ് 2 ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം 6 ടൈംസ് 3 ചെയ്താലും അല്ലെങ്കിൽ 3 ടൈംസ് 2 ആദ്യം ചെയ്താലും പ്രശ്നമില്ല പ്രോഡക്ട് സമാനമായിരിക്കും ബ്രാക്കറ്റിംഗ് ഉത്തരത്തെ മാറ്റില്ല അന്തിമ മൂല്യം ഒന്നുതന്നെയാണ് പക്ഷേ കണക്കുകൂട്ടുന്നതിന്റെ സങ്കീർണ്ണതയെ സ്വാധീനിക്കുമെന്ന് പറയാം നമുക്ക് ഈ മെട്രിക്സുകളായ എ ബി സി എന്നിവ ഉണ്ട് എ ബി എന്നിവയ്ക്ക് ഈ റോയും കോളവും ഉണ്ട് A ക്ക് 1 ബൈ 100 അതായത് A ക്ക് 1 റോയും 100 കോളവും ഉണ്ട് B ക്ക് 100 റോയും 1 കോളവും ഉണ്ട് സിക്ക് വീണ്ടും 1 റോയും 100 കോളവും ഉണ്ട് ഇതുപോലുള്ള മെട്രിക്സുകളാണ് ഇവ ഇപ്പോൾ സംഭവിക്കുന്നത് ഞാൻ ആദ്യം ബി ടൈംസ് സി ഗുണിച്ചാൽ 100 ഇന്റു 1 ഇന്റു 100 ആയ ഒന്ന് എനിക്ക് ലഭിക്കും അതായത് 100 ബൈ 100 മെട്രിക്സ് ആയ ഒരു ഔട്ട് പുട്ട് നമുക്ക് ലഭിക്കും അതിൽ 10000 എൻട്രികൾ ഉണ്ട് ഇത് നമുക്ക് 10000 ഘട്ടങ്ങൾ എടുക്കാൻ പോകുന്നു ഇപ്പോൾ ഞാൻ ഇതിനെ A കൊണ്ട് ഗുണിക്കുമ്പോൾ 1 ബൈ 100 ഇന്റു 100 ആകാൻ പോകുന്നു അത് മറ്റൊരു 10000 സ്റ്റെപ്സ് ആണ് ഞാൻ ബിസി ചെയ്തതിനുശേഷം എ കൊണ്ട് ഗുണിച്ചാൽ ഞാൻ 10000 പ്ലസ് 10000 ചെയ്യുന്നു ഞാൻ 20000 സ്റ്റെപ്സ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഇത് മറ്റൊരു രീതിയിൽ ചെയ്താൽ ഞാൻ ആദ്യം എ ടൈംസ് ബിഎടുക്കുകയാണെങ്കിൽ ഈ മുഴുവൻ കാര്യങ്ങളും 1 ബൈ 1 സിംഗിൾ എൻട്രിയായി ചുരുങ്ങുന്നു അങ്ങനെ ഞാൻ 1 ഇന്റു 100 ഇന്റു 1 ചെയ്താൽ 100 സ്റ്റെപ്സ് കിട്ടും ഞാൻ ഈ റോയും ഈ കോളവും ഒരു സിംഗിൾ എൻട്രി ആയി മാറ്റി മെട്രിക്സ് മൾട്ടിപ്ലികേഷൻ ഒരു സിംഗിൾ എൻട്രി കമ്പ്യൂട്ടിങ് ഫലമായി ചുരുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് ഈ ഒരു എൻട്രി ഉണ്ട് വീണ്ടും ഇത് കൊണ്ട് ഞാൻ അതിനെ ഗുണിക്കണം ഇത് ഓരോ കോളത്തിനും ചെയ്യണം എനിക്ക് ഒരു എൻട്രി ലഭിക്കും അങ്ങനെ എനിക്ക് 100 സ്റ്റെപ്സ് എടുക്കും ഞാൻ 100 സ്റ്റെപ്സ് കൊണ്ട് എ ഇന്റു ബി ചെയ്തു ശേഷം ആ പ്രോഡക്ട് ഇന്റു സി ചെയ്യാൻ മറ്റൊരു 100 സ്റ്റെപ്സ് ചെയ്തു ഇപ്പോൾ നേരത്തെ ചെയ്ത 20000 സ്റ്റെപ്സിന് പകരം ഇവിടെ 200 സ്റ്റെപ്സ് കൊണ്ട് ഉത്തരം കിട്ടി ഇങ്ങനെയാണ് ഗുണനത്തിന്റെ സീക്വൻസ് ചെയ്യുന്നത് മൾട്ടിപ്ലികേഷൻ അസ്സോസിയേറ്റീവ് ആയത് കൊണ്ട് നിങ്ങൾ എങ്ങിനെ ചെയ്താലും പ്രശ്നമല്ല അതേ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ നിങ്ങൾ ചെയ്യുന്ന അസോയെറ്റിവ് സ്റ്റെപ്സിന്റെ സീക്വൻസ് ചെലവഴിക്കുന്ന സമയത്തിന്റെ തോത് വലിയ രീതിയിൽ മെച്ചപ്പെടുത്താനും മോശമാക്കാനും കാരണമാകും പൊതുവേ നമുക്ക് M 1 മുതൽ M n വരെയുള്ള ഒരു ശ്രേണി ഉണ്ട് അവയിൽ ഓരോന്നിനും ചില റോയും കോളവും ഉണ്ട് കൂടാതെ നമുക്ക് അടുത്തുള്ള ഓരോ ജോഡിയും ഗുണിക്കാമെന്നു അവ ഉറപ്പുനൽകുന്നു r 1 c 1 r 2 c 2 ആദ്യ രണ്ട് മെട്രിക്സ് ഓർഡർ അങ്ങനെയാണെങ്കിൽ c 1 r 2 ന് തുല്യമാണ് ആദ്യ മെട്രിക്സിലെ കോളം എണ്ണം രണ്ടാമത്തെ മെട്രിക്സിലെ റോ എണ്ണത്തിന് തുല്യമാണ് അതുപോലെ c 2 ന് തുല്യമാണ് r 3 എന്നിങ്ങനെ ഈ അളവുകൾ പൊരുത്തപ്പെടുമെന്ന് ഉറപ്പുനൽകുന്നു മെട്രിക്സ് ഗുണനം എല്ലായ്പ്പോഴും സാധ്യമാണ് ഏത് ക്രമത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ഒരു സമയം രണ്ട് മെട്രിക്സ് മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും എ ടൈംസ് ബി എങ്ങനെ ഗുണിക്കാമെന്ന് മാത്രമേ നമുക്ക് അറിയൂ നമുക്ക് മൂന്ന് മെട്രിക്സുകൾ എടുത്ത് നേരിട്ട് ഗുണിക്കാൻ കഴിയില്ല നമ്മൾ മൂന്നു മെട്രിക്സ് ചെയ്യാൻ ഉണ്ടെങ്കിൽ രണ്ടു ഘട്ടങ്ങൾ എ ടൈംസ് ബി തുടർന്ന് സി കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ ബി ടൈംസ് സി ചെയ്ത് തുടർന്ന് എ കൊണ്ട് ഗുണിക്കുക എന്നതാണ് എൻ മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ രണ്ടെണ്ണം വീതം ഒരു സമയം ചെയ്താൽ അത് സങ്കീർണ്ണമായ കാര്യമാണ് എനിക്ക് M 1 M 2 ചെയ്യാൻ കഴിയും എനിക്ക് അത് സംയോജിപ്പിച്ച് M 3 ഉപയോഗിച്ച് ഗുണിച്ച് ആ കോമ്പിനേഷൻ നടത്താം അല്ലെങ്കിൽ എനിക്ക് M 1 M 2 M 3 M 4 ചെയ്യാൻ കഴിയും തുടർന്ന് M 1 M 2 ന്റെ കോമ്പിനേഷനെ M 3 M 4 കൊണ്ട് ഗുണിക്കാം പ്രോഡക്ട് കണക്കുകൂട്ടുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് മറ്റൊരു വിധത്തിൽ ബ്രാക്കറ്റുകൾ ഇടുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് ബ്രാക്കറ്റുകളാണ് നമ്മോട് പറയുന്നത് നമ്മൾ M 1 M 2 M 3 M 4 എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്നതിന് കമ്പ്യൂട്ടിംഗിന്റെ ഒരു മാർഗ്ഗം M 1 M 2 പിന്നെ M 3 M 4 മറ്റ് വഴികൾ അത് ചെയ്യുന്നത് M 1 M 2 ചെയ്തു അത് M 3 കൊണ്ട് ഗുണിച്ച് പിന്നീട് M 4 അങ്ങനെ ആണ് ബ്രാക്കറ്റിംഗിന്റെ വ്യത്യസ്ത വഴികൾ ഈ ഗുണനത്തിനായുള്ള വ്യത്യസ്ത മൂല്യനിർണ്ണയ ഓർഡറുകളുമായി മാറുന്നു നിങ്ങൾ ചെയ്യേണ്ടത് യഥാർത്ഥ കണക്കുകൂട്ടൽ നടത്താതെ തന്നെ ഏറ്റവും മികച്ച സീക്വൻസ് കണക്കാക്കലാണ് അങ്ങിനെ അതിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ എന്താണ് അവസാനമായി ഇത് ചെയ്യുമ്പോൾ ഓർക്കുക നമ്മൾ ഒരു സമയം രണ്ടെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ അവസാനം ചില ഗ്രൂപ്പുകൾ ഇന്റു വേറെ ഗ്രൂപ്പ് എന്നത് പോലെ നമ്മൾ അവസാനിപ്പിക്കണം ഇത് ഇതുപോലെയായിരിക്കണം മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം ചില M 1 പ്രൈമിലേക്ക് ചുരുങ്ങുകയും വേണം ഈ കാര്യം M 2 പ്രൈമിലേക്ക് ചുരുങ്ങുകയും ഒടുവിൽ M1 പ്രൈം കൊണ്ട് M 2 പ്രൈംനെ ഗുണിക്കുകയും ചെയ്യുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ M 1 പ്രൈം എന്നാൽ ചില k യ്ക്ക് M 1 മുതൽ M k വരെയാണ് M 2 പ്രൈം എന്നാൽ k പ്ലസ് 1 മുതൽ n വരെ ഇത് എന്റെ M 1 പ്രൈം ആണ് ഇത് എന്റെ M 2 പ്രൈമാണ് ഈ k 1 നും n നും ഇടയിലാണ് ഏറ്റവും മോശം അവസ്ഥയിൽ എനിക്ക് M 1 ചെയ്യാൻ കഴിയുമായിരുന്നു മറുവശത്ത് എനിക്ക് ഇത് ചെയ്യാൻ കഴിയും M 2 മുതൽ M n വരെ ചെയ്യാമായിരുന്നു ഈ മുഴുവൻ കാര്യവും എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നതാണ് മറ്റ് മോശം കേസുകൾ M 1 M 2 അത്ര മോശമല്ല പക്ഷേ അങ്ങേയറ്റത്തെ കേസുകൾ M 1 ഇന്റു മുതൽ M n മൈനസ് 1 ആണ് ഞാൻ ഇതിനകം ഇത് കണക്കുകൂട്ടിയിരിക്കാം ഇപ്പോൾ അവസാനമായി M n കൊണ്ട് ഗുണിക്കുക അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ആകാം ഞാൻ വെറും ഏകപക്ഷീയമായ ഒരു k തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ ആദ്യം ഉള്ളത് R 1 റോ ഉണ്ട് CK കോളം ഉണ്ട് രണ്ടാമത്തേത് rk പ്ലസ് വൺ റോ cn കോളം ആണ് പക്ഷേ ck rk പ്ലസ് 1 ന് തുല്യമാണെന്ന് നമുക്കറിയാം ഈ മെട്രിക്സ് പ്രവർത്തിക്കും അന്തിമ കണക്കുകൂട്ടൽ r 1 ഇന്റു ck ഇന്റു cn ആണ് m ഇന്റു n ഇന്റു p റോ ഇന്റു കോളം കോമൺ നമ്പർ ഓഫ് കോളം റോ ഇന്റു അവസാനത്തെ കോളം നമ്പർ ഈ അന്തിമ ഗുണനം അതിന്റെ വില എത്രയാണെന്ന് നമുക്ക് അറിയാം ഇതിലേക്ക് രണ്ട് ഘടകങ്ങളും കണക്കാക്കിയതിന്റെ ഇൻഡക്റ്റീവ് ചിലവ് നമ്മൾ ആവർത്തിച്ച് ചേർക്കേണ്ടതുണ്ട് എം 1 പ്രൈം ചെയ്യാൻ എത്ര സമയം എടുക്കും അത് എം 2 പ്രൈം ചെയ്യാൻ എത്ര സമയം എടുക്കും നമുക്ക് കോസ്റ്റ് ഈക്വൽ റ്റു കോസ്റ്റ് ഓഫ് M 1റ്റു M k പ്ലസ് കോസ്റ്റ് ഓഫ് M k പ്ലസ് വൺ റ്റു M n പ്ലസ് r 1 ഇന്റു c k ഇന്റു c n ആയിരിക്കും വ്യത്യസ്ത കേസുകളിൽ ഈ ചെലവ് വ്യത്യാസപ്പെടും കൂടാതെ നിരവധി കേസുകളുമുണ്ട് K യുടെ n മൈനസ് 1 ചോയ്സുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു 1 മുതൽ n മൈനസ് 1 വരെ എന്തും നമുക്ക് k ആയി തിരഞ്ഞെടുക്കാം N മൈനസ് 1 സബ് പ്രോബ്ലം ഉണ്ട് നമ്മൾ ഏറ്റവും ദൈർഘ്യമേറിയ സബ് സീക്വൻസ് പ്രശ്നം ചെയ്തപ്പോൾ നമുക്ക് രണ്ട് സബ് പ്രോബ്ലം ഉണ്ടായിരുന്നു നമുക്ക് ഒന്നാമത്തെ അക്ഷരം ai അല്ലെങ്കിൽ രണ്ടാമത്തെ അക്ഷരം bj ഉപേക്ഷിക്കാം തുടർന്ന് രണ്ട് സബ് പ്രോബ്ലം പരിഗണിക്കേണ്ടതുണ്ട് ഏതാണ് മികച്ചതെന്ന് അറിയാൻ നമുക്ക് ഒരു മാർഗവുമില്ല നമ്മൾ അവ രണ്ടും ചെയ്തുഅതിന്റെ മാക്സ് എടുത്തു ഇപ്പോൾ ഇവിടെ നമുക്ക് k യുടെ n മൈനസ് 1 വ്യത്യസ്ത ചോയിസുകൾ നമുക്ക് ഉണ്ട് ഈ കേസിൽ ഏതാണ് മികച്ചതെന്ന് അറിയാൻ ഒരു മാർഗവുമില്ല വീണ്ടും നമ്മൾ അവയെല്ലാം പരീക്ഷിച്ച് മിനിമം എടുക്കുന്നു ഏറ്റവും ദൈർഘ്യമേറിയ സബ് സീക്വൻസ് പ്രശ്നം ചെയ്തപ്പോൾ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മാക്സിമം ആണ് എടുത്തത് ഇവിടെ നമുക്ക് മിനിമം കോസ്റ്റ് ആണ് വേണ്ടത് ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് കുറക്കുന്ന ആ k തിരഞ്ഞെടുക്കുക റിക്കേഴ്സീവ് ആയി ഇതെല്ലം സ്പ്ലിറ്റ് കുറക്കുന്നു അതാണ് ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ അവസാനമായി M 1 മുതൽ M n വരെ ഗുണിക്കുന്നതിനുള്ള ചെലവ് k യുടെ എല്ലാ ചോയിസുകളിലും ഏറ്റവും ചുരുങ്ങിയത് ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നുകോസ്റ്റ് ഓഫ് M 1 റ്റു M k പ്ലസ് കോസ്റ്റ് ഓഫ് M k പ്ലസ് 1 റ്റു M n പ്ലസ് ഇത് തീർച്ചയായും k യുടെ തിരഞ്ഞെടുപ്പിനായി നമ്മൾ ഒരു അന്തിമ ഗുണനം ചെയ്യേണ്ടതുണ്ട് അതായത് ഇത് ഫലമായുണ്ടാകുന്ന ഈ ഉപ മെട്രിക്സുകൾ എടുക്കുക അതുകൊണ്ട് r 1 ഇന്റു ck ഇന്റു c n കൂടി എടുക്കുന്നു നമ്മൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് M 1 മുതൽ M n വരെ ഉണ്ട് നമ്മൾ M 1 മുതൽ M k വരെ തിരഞ്ഞെടുത്തു മുമ്പുള്ളതുപോലെഎന്താണ് സംഭവിക്കുക ഇത് നമുക്ക് എവിടെയെങ്കിലും വിഭജിക്കേണ്ടതുണ്ട് നമുക്ക് ഇപ്പോൾ M 1അല്ലാത്ത അല്ലെങ്കിൽ M n അല്ലാത്ത ചില സെഗ്മെന്റുകൾ ഉണ്ടായിരിക്കും അത് ചില M j ൽ ആരംഭിച്ച് M k വരെ പോകുന്നു പൊതുവേ ഇത് ഈ ഇടത് വലത് പോയിന്റിനായി നമ്മൾ കൊടുക്കണം ഇടത് വശത്തെ പോയിന്റ് 1 ആണെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല വലത് വശത്തെ പോയിന്റ് n ആണെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല പൊതുവേ നമുക്ക് M i മുതൽ M j വരെ ഒരു സെഗ്മെന്റ് ഉണ്ടെങ്കിൽ k യുടെ i മുതൽ j മൈനസ് 1 വരെയുള്ള എല്ലാ മൂല്യങ്ങളുടെയും ഏറ്റവും ചെറിയ മൂല്യം നമുക്ക് വേണം നമുക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ആവശ്യമാണ് M i മുതൽ M k വരെയും M k പ്ലസ് 1 മുതൽ M j വരെയും കണക്കുകൂട്ടുന്നതിൽ നിന്നും മിനിമം കോസ്റ്റ് എടുക്കണം കൂടാതെ ഈ അന്തിമ ഗുണനത്തിന്റെ കോസ്റ്റ് ri ഇന്റു ck ഇന്റു c j അതും വേണം ഇത് കോസ്റ്റ് ij എന്ന് എഴുതുന്നുകോസ്റ്റ് i j M i മുതൽ M j വരെയുള്ള സെഗ്മെൻറ് കണക്കുകൂട്ടുന്നതിനുള്ള ചെലവാണ് അതിൽ ഏറ്റവും മികച്ച k തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടുന്നു ഇപ്പോൾ M i മുതൽ M j വരെ കോസ്റ്റ് ij എന്ന് വിളിക്കുന്നു നമ്മൾ അതേ റിക്കേഴ്സീവ് ഇൻഡക്റ്റീവ് നിർവചനം ഉപയോഗിച്ച് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക ഈ സെഗ്മെന്റ് l നോക്കിയാൽ അടിസ്ഥാന കേസ് നമ്മൾ ഇപ്പോൾ ഒരു മെട്രിക്സ് 1 റ്റു 1 അല്ലെങ്കിൽ 3 റ്റു 3 അല്ലെങ്കിൽ 7 റ്റു 7 മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിയാൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല അവിടെ ഗുണനങ്ങളില്ലാത്ത ഒരു മെട്രിക്സ് ആണ് അപ്പോൾ ചെലവ് 0 ആണ് അപ്പോൾ നമുക്ക് ഈ കോസ്റ്റ് ij സമവാക്യം എഴുതാം ഇത് മിനിമം ഓവർ k ഓഫ് കോസ്റ്റ് i k പ്ലസ് കോസ്റ്റ് k പ്ലസ് 1 j പ്ലസ് r i c k c j k എന്ന് ആണ് ഇത് യഥാർത്ഥ ഗുണനമാണ് തീർച്ചയായും i എല്ലായ്പ്പോഴും j നേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കും കാരണം നമ്മൾ ഇത് ഇടത്തുനിന്ന് വലത്തോട്ട് ചെയ്യുന്നു ഈ രണ്ട് അവസാന പോയിന്റുകൾ ഉള്ള സെഗ്മെന്റ് നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് അനുമാനിക്കാം അവിടെ ഐ j നേക്കാൾ കുറവോ തുല്യമോ ആണ് ഐ j യേക്കാൾ കുറവോ തുല്യമോ ആണ് നമ്മൾ കോസ്റ്റ് ij യെ ഒരു തരം മെട്രിക്സ് ആയി കാണുന്നു അപ്പോൾ ഐ j യേക്കാൾ വലുതായ ഈ പ്രദേശം മുഴുവനും നമ്മൾ തള്ളിക്കളയുന്നു നമ്മൾ ഈ ഡയഗോണലിലേക്ക് മാത്രം നോക്കുന്നു എന്നാൽ ആ എൻട്രികൾ എല്ലാം i കോമ i ഫോം തന്നെയാണ് അങ്ങനെ ഈ എല്ലാ എൻട്രികൾ ആദ്യം പൂജ്യം ആണ് ഈ ഡയഗണലിൽ സ്ഥാനം j മുതൽ സ്ഥാനം j വരെ ഗുണനം ചെയ്യുന്നതിൽ ഒരു ചെലവുമില്ല ഇപ്പോൾ i കോമ j കണക്കുകൂട്ടാൻ എനിക്ക് ak തിരഞ്ഞെടുക്കേണ്ടതുണ്ട് കൂടാതെ k എന്നതിന് എല്ലാ മൂല്യങ്ങളും ഞാൻ കണക്കുകൂട്ടേണ്ടതുണ്ട് അതായത് ഞാൻ ik കണക്കുകൂട്ടണം എനിക്ക് ഒരു പ്രത്യേക എൻട്രി i കോമ j കണക്കുകൂട്ടണമെങ്കിൽ എനിക്ക് ഒരു നല്ല k തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിനോട് യോജിക്കുന്നു ഒരു നല്ല k തിരഞ്ഞെടുക്കേണ്ടത് എനിക്ക് പലവിധത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും എനിക്ക് പിക്ക് എന്ന് പറയാൻ കഴിയും ഉദാഹരണത്തിന് ഈ പ്രത്യേക കാര്യം കണക്കുകൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇപ്പോൾ എനിക്ക് പറയാം പിക്ക് എൻട്രി i റ്റു i തുടർന്ന് എനിക്ക് i പ്ലസ് 1 മുതൽ j വരെ എൻട്രി വേണം എനിക്ക് i പ്ലസ് 1 റ്റു j എൻട്രി ഉണ്ട് ഈ രണ്ട് എൻട്രികളും എനിക്ക് കൂട്ടണം അല്ലെങ്കിൽ ഞാൻ ഈ എൻട്രി എടുത്ത് ഈ എൻട്രി യുടെ കൂടെ കൂട്ടണം പൊതുവേ എനിക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എൻട്രി എന്റെ കെ പോയിന്റായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നേടുന്നതിന് ഞാൻ ഈ എൻട്രി ചേർക്കണം കൂടാതെ ഈ സം എടുക്കുക അല്ലെങ്കിൽ ഞാൻ ഈ എൻട്രി എടുത്ത് ഈ എൻട്രിയുടെ കൂടെ ചേർക്കുകയും തുടർന്ന് ഇതും മറ്റും കൂട്ടുകയും ചെയ്യുക പൊതുവേ നമുക്ക് ഓർഡർ n മൂല്യങ്ങൾ ഉണ്ടായിരിക്കാം ഇതിനായി എനിക്ക് കണക്കുകൂട്ടേണ്ടതുണ്ട് എനിക്ക് ഇവിടെ എല്ലാ മൂല്യങ്ങളും ആവശ്യമാണ് എനിക്ക് ഇവിടെയുള്ള എല്ലാ മൂല്യങ്ങളും ആവശ്യമാണ് എനിക്ക് ഇടത്തോട്ടും താഴോട്ടും എന്തെങ്കിലും ആവശ്യമുണ്ട് പക്ഷേ ഞാൻ ഡയഗണലിൽ ആരംഭിക്കുകയാണെങ്കിൽ അത് എളുപ്പമാകും കാരണം തുടക്കത്തിൽ ഈ മൂല്യങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അടിസ്ഥാന കേസ് പിന്നീട് ഇടത്തോട്ടും താഴെയുമായി എനിക്ക് ഇത് പൂരിപ്പിക്കാൻ കഴിയും കാരണം ഇത് ഇടതുവശത്തുള്ള മൂല്യങ്ങളാണെന്ന് എനിക്കറിയാം ഈ മൂല്യം ഇടത്തോട്ടു താഴെയുമായി വരുമെന്ന് എനിക്കറിയാം എനിക്ക് ഈ ഡയഗണൽ പൂരിപ്പിക്കാൻ കഴിയും അടുത്ത ഘട്ടത്തിൽ എനിക്ക് ഈ ഡയഗണൽ പൂരിപ്പിക്കാൻ കഴിയും കാരണം എനിക്ക് ഇടത് താഴെ എല്ലാ മൂല്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ എൻട്രിയിൽ എനിക്ക് ഇടത്തോട്ടും താഴെയുമായി മൂല്യങ്ങളുണ്ട് എനിക്ക് ഈ ഡയഗണൽ പൂരിപ്പിക്കാൻ കഴിയും എനിക്ക് ഇത് ഡയഗണൽ ബൈ ഡയഗണൽ ഉപയോഗിച്ച് പൂരിപ്പിക്കാൻ കഴിയും ഈ ഇൻഡക്റ്റീവ് നിർവചനം ഉപയോഗിച്ച് എനിക്ക് ഈ ടേബിൾ പൂരിപ്പിക്കാൻ കഴിയുന്ന ക്രമമാണിത് കാരണം ഡിപെൻഡെൻസി സംഭരിക്കുന്ന രീതിയാണിത് ഈ പ്രത്യേക കാര്യത്തിനുള്ള കോഡ് ഇതാണ് നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം ശ്രദ്ധിക്കേണ്ട ഒരേയൊരു കാര്യം നമ്മൾ ചിലത് ഇതുപോലെ ഉപയോഗിച്ചതായി കാണാൻ കഴിയും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നു വച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു എൻട്രി കണക്കുകൂട്ടുക നമ്മൾ ഈ ഒരു എൻട്രി കണക്കുകൂട്ടുകയാണെന്ന് കരുതുക തുടർന്ന് ഈ എൻട്രിയുടെ നിരവധി വ്യത്യസ്ത ജോഡികളിലൂടെ പോയി മിനിമം കണക്കുകൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ എൻട്രി ഈ എൻട്രി അങ്ങിനെ ഏറ്റവും ദൈർഘ്യമേറിയ സബ് വെർഡ് നിങ്ങൾ കണക്കാക്കിയപ്പോൾ നമ്മൾ ചെയ്തത് ഓർക്കുക മാക്സിമം പൂജ്യമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു മാത്രമല്ല ഒരു വലിയ മൂല്യം കാണുമ്പോഴെല്ലാം നമ്മൾ അത് അപ്ഡേറ്റുചെയ്യുകയും ചെയ്തു ഇവിടെ നമുക്ക് ഏറ്റവും കുറഞ്ഞ എൻട്രി വേണം അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും നാം മിനിമം എന്നാൽ ഒരു വലിയ എൻട്രി ആയി എടുക്കും ഒരു എൻട്രിയും പരിശോധിക്കുമ്പോൾ അത് മിനിമത്തേക്കാൾ ചെറുതാണ് എങ്കിൽ നമ്മൾ ഇത് കുറക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ലൂപ്പ് ആരംഭിക്കുമ്പോൾ rc യുടെ മൂല്യം യഥാർത്ഥത്തിൽ ഇൻഫിനിറ്റി ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഇനി എന്താണ് ഇൻഫിനിറ്റി ഉദാഹരണത്തിന് നമ്മൾ ഈ പ്രോബ്ലെത്തിൽ കാണുന്ന എല്ലാ ഡൈമെൻഷന്റെയും പ്രോഡക്ട് നമുക്ക് ഇൻഫിനിറ്റി ആയി എടുക്കാം മൊത്തം അളവ് അതിനേക്കാൾ കൂടുതലാകില്ലെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എടുക്കാവുന്ന എല്ലാ ഡൈമെൻഷന്റെയും പ്രോഡക്ട് നിങ്ങൾക്ക് വളരെ വലിയ സംഖ്യ ആയി എടുക്കാം നിങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ആകണമെന്നില്ല നമ്മൾ അത് കോഡിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യുന്ന പ്രധാന കാര്യം നമ്മൾ മിനിമം കമ്പ്യൂട്ട് ചെയ്യുന്നു എന്നതാണ് മാക്സിമം ചെയ്യുമ്പോൾ 0 എന്ന് ആരംഭിച്ച് അത് അപ്ഡേറ്റുചെയ്യുന്നതിനുപകരം ഇവിടെ നിങ്ങൾ വലിയ മൂല്യത്തിൽ ആരംഭിച്ച് അത് ചെറുതാക്കുന്നതു തുടരുക ഓരോ തവണയും നമ്മൾ കണ്ട നിലവിലെ മൂല്യത്തേക്കാൾ ചെറുതായ ഒരു സബ് പ്രോബ്ലം നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ആ മൂല്യത്തെ പുതിയ മിനിമം ആയി മാറ്റിസ്ഥാപിക്കുന്നു ഇവിടെ ഇത് പ്രധാനമാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ ടേബിളിൽ പട്ടിക ഡയഗണൽ ബൈ ഡയഗോണൽ ആയി പോകുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് ഓരോ ഡയഗണലിനും നമ്മൾ റോയും കോളവും സ്കാൻ ചെയ്യുകയും ആ റോയിലെയും കോളത്തിലെയും എല്ലാ ജോഡികളിലെയും ഏറ്റവും കുറഞ്ഞത് കണക്കാക്കുകയും ചെയ്യുന്നു ഈ LCS പ്രശ്നത്തിലെന്നപോലെ നമ്മൾ ഒരു ഓർഡർ n സ്ക്വയർ വലിപ്പമുള്ള ടേബിൾ പൂരിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ LCS ഉം ഇതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം LCS കാര്യത്തിൽ ഒരു എൻട്രി പൂരിപ്പിക്കുന്നതിന് സ്ഥിരമായ എൻട്രികൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഓർഡർ mn അല്ലെങ്കിൽ ഓർഡർ n സ്ക്വയർ ചെയ്യുക എന്നാൽ പ്രധാന കാര്യം ഓരോ എൻട്രിക്കും സ്ഥിരമായ സമയമെടുക്കുന്നു അതുകൊണ്ടു പൂരിപ്പിക്കാൻ ഉള്ള ശ്രമം പട്ടികയുടെ വലുപ്പം അനുസരിച്ച് ആണ് mn ടേബിൾ mn സമയം എടുക്കുന്നു ഇവിടെ നിർഭാഗ്യവശാൽ അത് ശരിയല്ല ഒരു എൻട്രി ഡയഗണലിൽ നിന്നുള്ള ദൂരത്തിനു ആനുപാതികമായി സമയമെടുക്കുമെന്ന് നമ്മൾ കണ്ടു പൊതുവേ അത് ഒരു ഓർഡർ n ഫാക്ടർ ചേർക്കും നമ്മൾ ഓർഡർ n സ്ക്വയർഡ് ബൈ 2 എൻട്രികൾ ഉണ്ട് യഥാർത്ഥത്തിൽ ഓർഡർ n സ്ക്വയർഡ് എൻട്രികൾ നമ്മൾ ഓർഡർ N വർക് പെർ എൻട്രി ചെയ്യണമായിരുന്നു കാരണം ഓരോ എൻട്രിയും ചെയ്യുമ്പോൾ അതിന്റെ ഇടത് വശത്തെ റോ സ്കാൻ ചെയ്യണം അതിന്റെ താഴെയുള്ള കോളം നോക്കണം അതിന്റെ തൊട്ടടുത്തുള്ള ഒരു എൻട്രി മാത്രം നോക്കിയാൽ പോര ഇതെല്ലാം കൂടി ഓർഡർ n ക്യൂബ് ആയി മാറുന്നുഓർഡർ n സ്ക്വയറല്ല ഓർമിക്കേണ്ട ചില കാര്യങ്ങളാണിത് ഇവിടെ ടേബിൾ വലുപ്പത്തേക്കാൾ സങ്കീർണ്ണത കൂടിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മൾ കണ്ട എല്ലാ ഉദാഹരണങ്ങളും ഈ ഉദാഹരണം ചെയ്യാനുള്ള കാരണമാണ് നമ്മൾ മുമ്പ് കണ്ട ഉദാഹരണങ്ങൾ എല്ലാം ഫിബനാച്ചിയിൽ നമ്മൾ ലീനിയർ n ടേബിൾ ഉണ്ടായിരുന്നു തുടർന്ന് അത് ലീനിയർ nസമയം അത് പൂരിപ്പിക്കുന്നതിന് എടുത്തു ഗ്രിഡ് പാത്ത് ലോങ്ങ്സ്റ്റ് കോമൺ സബ് സീക്വൻസ് എന്നയവയിൽ നമുക്ക് m ബൈ n ടേബിൾ ഉണ്ടായിരുന്നു അതിൽ m ബൈ n സമയം അല്ലെങ്കിൽ n ബൈ m സമയം കൊണ്ട് പൂരിപ്പിച്ചു ഇവിടെ നമുക്ക് n ബൈ n ഉള്ള ഒരു ടേബിൾ ഉണ്ട് പക്ഷേ ഇത് പൂരിപ്പിക്കുന്നതിന് n ക്യൂബ് സമയമെടുക്കും കാരണം ഓരോ എൻട്രിക്കും സ്ഥിരമായ സമയത്തേക്കാൾ കൂടുതൽ സമയം ആവശ്യമാണ് ഇത് യഥാർത്ഥത്തിൽ n ന് ആനുപാതികമായി സമയം എടുക്കും